നമ്മൾ അസൈൻമെന്റ് നമ്പർ 4 പരിഹരിക്കുന്നു നമ്മൾ 1 മുതൽ 5 വരെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിനാൽ ഇപ്പോൾ നമ്മൾ പ്രശ്നം നമ്പർ 6 പരിഹരിക്കുന്നു ഇത് ഒരു നീണ്ട സിലിണ്ടറിനൊപ്പം z അക്ഷമാണെന്ന് പരിഗണിക്കുക അതിനാൽ നമ്മൾക്ക് ഒരു നീണ്ട സിലിണ്ടർ ഉണ്ട് അതിനാൽ ഫ്രിഞ്ച് ഇഫക്റ്റുകൾ ഇല്ലാതാകും z അക്ഷത്തിൽ ഇത് വൈദ്യുത സസ്പെസ്റ്റിബിലിറ്റി chi e യുടെ ഒരു ഡീലക്ട്രിക് മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു ഏകീകൃത ഇലക്ട്രിക് ഫീൽഡിൽ E E 0 y ന് തുല്യമാണെങ്കിൽ സിലിണ്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് ധ്രുവീകരണവും സ്ഥാനചലനവും കണ്ടെത്തുക അതിനാൽ ഞാൻ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് ഈ സിലിണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു മെറ്റീരിയൽ chi e ഉണ്ട് നമ്മൾ അത് y ദിശയിലേക്ക് പോകുന്ന ഒരു ഏകീകൃത ഫീൽഡിൽ ഇട്ടു ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം ഇത് അകത്ത് ഒരു ഏകീകൃത ധ്രുവീകരണം സൃഷ്ടിക്കാൻ പോകുന്നുവെന്നും ഈ ഏകീകൃത ധ്രുവീകരണം എന്താണ് ചെയ്യുന്നതെന്നും ഇത് വിപരീത ദിശയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു ഇത് ഒരു ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു അത് ഞാൻ മഞ്ഞ വഴി വിപരീത ദിശയിൽ കാണിക്കുന്നു അതിനാൽ ഉള്ളിലെ നെറ്റ് ഫീൽഡ് പ്രയോഗിച്ച ഫീൽഡിന്റെയും സൃഷ്ടിച്ച ഫീൽഡിന്റെയും സംയോജനമാണ് അതിനാൽ സൃഷ്ടിച്ച ധ്രുവീകരണം p യുടെ അതേ ദിശയിലാണ് p എന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് y ദിശയിലാണ് p ഈ ഇന്റേൺ ഒരു ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കും അത് മൈനസ് പി ഓവർ 2 എപ്സിലോൺ 0 അല്ലെങ്കിൽ y ദിശയിൽ മൈനസ് പി ഓവർ 2 എപ്സിലോൺ 0 അതിനാൽ E നുള്ളിലെ നെറ്റ് ഫീൽഡ് E പ്രയോഗിക്കാൻ പോകുന്നു അത് E 0 y മൈനസ് p ഓവർ 2 എപ്സിലോൺ 0 y ആണ് EE0yPPyE P20 P20y EE0y P20y Pe0Ee0E0 P20yPe0E0 eP2 P1e2e0E0P2e2e0E0y ഇപ്പോൾ പി ഇൻസൈഡ് എന്ന് പറയുന്ന പി ഘടനാപരമായ ബന്ധം ഉപയോഗിച്ച് എനിക്ക് പി കണ്ടെത്താനാകും എല്ലാം y ദിശയിലായതിനാൽ മുകളിൽ വെക്റ്റർ ചിഹ്നം എഴുതാൻ ഞാൻ മെനക്കെടില്ല അല്ലെങ്കിൽ തൽക്കാലം എഴുതാം പി ഇൻസൈഡ് chi e ആ സമയത്ത് chi e എപ്സിലോൺ 0 ഇ ക്ക് തുല്യമാണ് അതിനാൽ ഇത് y ദിശയിൽ chi e എപ്സിലോൺ 0 ഇ 0 മൈനസ് പി ഓവർ 2 എപ്സിലോൺ 0 ന് തുല്യമായിരിക്കും എല്ലാം y ദിശയിലായതിനാൽ എഴുതുക p എന്നത് chi e എപ്സിലോൺ 0 E 0 മൈനസ് chi e p ഓവർ 2 അതിനാൽ ഇപ്പോൾ എനിക്ക് p എന്ന സമവാക്യം chi e എപ്സിലോൺ 0 ഇ 0 മൈനസ് chi e പി ഓവർ 2 ന് തുല്യമാണ് അത് എനിക്ക് പി 1 പ്ലസ് chi e ഓവർ 2 നൽകുന്നത് chi e എപ്സിലോൺ 0 ഇ 0 ന് തുല്യമാണ് അല്ലെങ്കിൽ പി 2 chi e ക്ക് തുല്യമാണ് e ഓവർ 2 പ്ലസ് chi e എപ്സിലോൺ 0 ഇ 0 ശ്രദ്ധിക്കുക chi e 0 ആണെങ്കിൽ p ഇല്ല അതിനാൽ ഇപ്പോൾ എനിക്ക് വെക്റ്റർ ചിഹ്നം p ദിശ y ദിശയിലാക്കാൻ കഴിയും E ഉള്ളിലെ വൈദ്യുത മണ്ഡലം മറ്റൊന്നുമല്ല E പ്രയോഗിച്ചത് ഇ 0 മൈനസ് p ഓവർ 2 എപ്സിലോൺ 0 ആണ് അതിനാൽ ഇത് y 0 ദിശയിൽ E 0 മൈനസ് chi e ഓവർ 2 പ്ലസ് chi e E 0 ആയിരിക്കും E E0 P20E0 e2eE0y 22eE0y D1e0E 2 1e2e0E0y അതിനാൽ ഇത് y ദിശയിൽ 2 ഓവർ 2 പ്ലസ് chi e ഇ 0 ആയി വരുന്നു സ്ഥാനചലനത്തെക്കുറിച്ച് സ്ഥാനചലനo മറ്റൊന്നുമല്ല ഒന്നുകിൽ എനിക്ക് നേരിട്ട് 1 പ്ലസ് chi e എപ്സിലോൺ 0 ഇ എഴുതാം അല്ലെങ്കിൽ എപ്സിലോൺ 0 ഇ പ്ലസ് പി എന്ന ബന്ധം എനിക്ക് ഉപയോഗിക്കാം എല്ലാം ഒരേ കാര്യമാണ് അതിനാൽ ഇത് y ദിശയിൽ 2 തവണ 1 പ്ലസ് chi e ഓവർ 2 പ്ലസ് chi e ടൈംസ് ഇ 0 എപ്സിലോൺ 0 ആയിരിക്കും അടുത്ത ചോദ്യo നമ്പർ 7 ഇത് യഥാർത്ഥത്തിൽ ഒരു ഇന്റഗ്രൽ കണ്ടെത്തുന്നതിന് അറിയപ്പെടുന്ന ഒരു ബന്ധം ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ ഒരു നീണ്ട സോളിനോയിഡിന്റെ ഫീൽഡ് നോക്കുകയും ഒരു പ്രത്യേക ഇന്റഗ്രൽ കണക്കാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു നീണ്ട സോളിനോയിഡ് പരിഗണിക്കുക ഇതിന് ബി ഉള്ളിൽ ഒരു ഫീൽഡ് mu 0 k z ന് തുല്യമാണ് ഇവിടെ k എന്നത് ഉപരിതല വൈദ്യുതധാരയാണ് R സോളിനോയിഡിന്റെ ആരം ആണെങ്കിൽ ഈ വസ്തുതയുടെയും ബയോ സാവാർട്ട് നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്റഗ്രലിന്റെ മൂല്യം Bin0kz ∞dz02πdϕR rcosϕ ϕz2R2r2 2rRcosϕ 32 അതിനാൽ ഇന്റഗ്രൽ dz പ്രൈം മൈനസ് അനന്തത മുതൽ അനന്തത ഡി ഫൈ പ്രൈം 0 മുതൽ 2 പൈ വരെ മൂല്യം കണ്ടെത്താൻ നമ്മൾ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു കൂടാതെ എനിക്ക് ഫൈ മൈനസ് ഫൈ പ്രൈമിന്റെ ആർ മൈനസ് ആർ കോസൈൻ ഉണ്ട് z പ്രൈം സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2 ആർ ആർ കോസൈൻ ഫൈ മൈനസ് ഫൈ പ്രൈം 3 മുതൽ 2 വരെ ഉയർത്തുന്നു നമ്മൾ നൽകിയ അസൈൻമെന്റിൽ ഒരു ടൈപ്പോഗ്രാഫിക്കൽ പിശക് ഉണ്ട് z പ്രൈമിന് പകരം നമ്മൾ അവിടെ z എഴുതിയിട്ടുണ്ട് അതിനാൽ ദയവായി ശരിയാക്കുക ഈ മൂല്യം R നെക്കാൾ R കുറവോ R നെക്കാൾ വലുതോ ആണ് ഇത് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ബയോ സാവാർട്ട് നിയമമനുസരിച്ച് ബി ഒന്നുമല്ല കറന്റ് I ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ mu 0 ഓവർ 4 pi ഇന്റഗ്രൽ ആണ് എനിക്ക് എഴുതാം I dl പ്രൈം ക്രോസ് r മൈനസ് r പ്രൈം ഓവർ മോഡ്യൂള്സ് r മൈനസ് r പ്രൈം ക്യൂബ് ഇതും mu 0 ഓവർ 4 pi ഇന്റഗ്രൽ ജെ r പ്രൈം ക്രോസ് ആർ മൈനസ് ആർ പ്രൈം ഓവർ ആർ മൈനസ് ആർ പ്രൈം ക്യൂബ്ഡ് ഡി വോളിയം പ്രൈമിന് തുല്യമാണ് ഇവിടെ എഴുതിയ ഈ ഇന്റഗ്രൽ നമ്മൾ കണക്കാക്കുകയും അത് ഈ ഫോമിലേക്ക് വരുന്നതായി കാണിക്കുകയും ചെയ്താൽ നിങ്ങൾ കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന ഇന്റഗ്രൽ മൂല്യം എന്താണെന്ന് നമ്മൾക്ക് കാണിച്ചാൽ നമ്മൾക്ക് ബന്ധപ്പെടാം B 0I4πdlr rr r3dV04πjr×r rr r3dV ആമ്പിയർ പ്രൈം വഴി കണക്കാക്കിയ മൂല്യവുമായി ഇതുമായി ബന്ധപ്പെട്ട ഈ ഇന്റഗ്രലിന്റെ മൂല്യം നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനാൽ നമുക്ക് ഇപ്പോൾ അത് ചെയ്യാം ഈ പ്രശ്നത്തിൽ ഞാൻ എന്തുചെയ്യും ഇത് z ദിശയിൽ വിവർത്തനപരമായി മാറ്റമില്ലാത്തതിനാൽ z ന്റെ ഏത് മൂല്യത്തിലാണ് ഞാൻ കാന്തികക്ഷേത്രം കണക്കാക്കുന്നത് എന്നത് സമാനമായിരിക്കും അതിനാൽ ഞാൻ കാന്തികക്ഷേത്രം z ന് 0 ന് തുല്യമായി കണക്കാക്കും ഇത് അൽപ്പം എളുപ്പമാക്കുന്നു അതിനാൽ നമ്മൾ ഈ സോളിനോയിഡിലേക്ക് നോക്കാം ഇതിനായി z ന് 0 ന് തുല്യമായ ചില r യിൽ m കണ്ടെത്തുന്നതിന് ശ്രമിക്കുന്നു ഇത് mu 0 ഓവർ 4 pi ഇന്റഗ്രൽ jr പ്രൈം ക്രോസ് ആർ മൈനസ് r പ്രൈം ഓവർ r മൈനസ് ആർ പ്രൈം ക്യൂബ്ഡ് ഡിവി പ്രൈം കറന്റ് സാന്ദ്രത എന്താണെന്ന് നമുക്ക് നോക്കാം വൈദ്യുതധാര ഉപരിതലത്തിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ അതിനാൽ എനിക്ക് ഫൈ പ്രൈം ദിശയിലുള്ള കറന്റ് സാന്ദ്രത j r പ്രൈം എഴുതാൻ കഴിയും അതിനാൽ ഇത് കെ ഡെൽറ്റയായിരിക്കും ഞാൻ സിലിണ്ടർ കോർഡിനേറ്റുകളുടെ മൈനസ് ആർ അല്ലെങ്കിൽ പ്രൈം മൈനസ് ആർ ഉപയോഗിക്കും ഇവിടെ എസ് സിലിണ്ടർ കോർഡിനേറ്റ് റേഡിയൽ ദിശ ഡെൽറ്റയുടെ പ്രൈം മൈനസ് ആർ ആണ് ഇത് ഫൈ പ്രൈം ദിശയിലാണ് പോകുന്നത് നമ്മൾ എടുക്കുന്ന വെക്റ്റർ z പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ ഇത് r s അല്ലാതെ മറ്റൊന്നുമല്ല r പ്രൈം വെക്റ്റർ s പ്രൈം ദിശയിൽ s പ്രൈം ആകും z ദിശയിൽ z പ്രൈം ആയിരിക്കും അതിനാൽ എനിക്ക് z ന് 0 ന് തുല്യമായി എഴുതാം കൂടാതെ ചില s phi എന്നിവ mu 0 ഓവർ 2 pi k ന് തുല്യമാണ് ഇന്റഗ്രൽ ഡെൽറ്റയുടെ പ്രൈം മൈനസ് R phi പ്രൈം യൂണിറ്റ് വെക്റ്റർ ക്രോസ് r ഇത് rs മൈനസ് പ്രൈം പ്രൈം യൂണിറ്റ് വെക്റ്റർ മൈനസ് z പ്രൈം z യൂണിറ്റ് വെക്റ്റർ കൊണ്ട് ഹരിക്കുന്നു jrkδs Rrrsrsszz Bz0sϕ 0k2πs Rrs ss zzz2s2r2 2srcosϕ 32sdsdϕdz 0k2πrs Rs zzz2R2r2 2Rrcosϕ 32Rdϕdz ഇപ്പോൾ ദൂരം z പ്രൈം സ്ക്വയറാകും കൂടാതെ ഈ ആർഎസ് യൂണിറ്റ് വെക്റ്റർ മൈനസിന്റെ പ്രൈം യൂണിറ്റ് വെക്റ്റർ ദൂരം ഇത് പ്രൈം സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2 ന്റെ പ്രൈം ആർ കോസൈൻ ഓഫ് ഫൈ മൈനസ് ഫൈ പ്രൈം റൈസ് ടു 3 ബൈ 2 ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച ദൂരം കാണാൻ എളുപ്പമാണ് നിങ്ങൾ s s പ്രൈം നോക്കുകയും നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ദൂരം നോക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു x y x y ഘടകങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ഈ ഉത്തരം ലഭിക്കും അതിനാൽ എനിക്ക് ഇവിടെ പ്രൈം ഇന്റഗ്രൽ എഴുതാനും കഴിയും mu 0 എന്ന് എഴുതാനും കഴിയും ഇത് എങ്ങനെ 2 പൈ വന്നു ഇത് 4 പൈ ആണ് mu 0 k ഓവർ 4 pi ഇന്റഗ്രൽ ഫൈ പ്രൈം ക്രോസ് ആർഎസ് മൈനസ് പ്രൈം ഇപ്പോൾ വരും R s പ്രൈം യൂണിറ്റ് വെക്റ്റർ മൈനസ് z പ്രൈം z z പ്രൈം സ്ക്വയർ പ്ലസ് R സ്ക്വയർ പ്ലസ് r സ്ക്വയർ മൈനസ് 2 R കോസൈൻ ഫൈ മൈനസ് ഫൈ പ്രൈം റൈസ് ടു 3 ബൈ 2 കൊണ്ട് വിഭജിച്ചിരിക്കുന്നു 2 കൊണ്ട് എനിക്ക് ശേഷിക്കുന്നത് d ഫൈ പ്രൈം R തവണ d z പ്രൈം ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ ഇവിടെയും ഞാൻ എഴുതിയിരിക്കണം കാരണം വോളിയം ഇന്റഗ്രൽ മറ്റൊന്നുമല്ല ds പ്രൈം s പ്രൈം d phi പ്രൈം dz പ്രൈം ds പ്രൈം നമ്മൾ ഇതിനകം സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ പ്രൈം r ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ അവസാന ബി z ദിശയിലാണെന്നും ഫൈ പ്രൈം ക്രോസ് എസ് അതേ x y തലം തന്നെയാണെന്നും z ദിശയിൽ എനിക്ക് ഒരു ഘടകം നൽകാൻ പോകുന്നുവെന്നും എനിക്കറിയാം ഫൈ പ്രൈം ക്രോസ് എസ് പ്രൈം വീണ്ടും അത് എനിക്ക് z ദിശയിൽ ഒരു ഘടകം നൽകാൻ പോകുന്നു എന്നിരുന്നാലും ഫൈ പ്രൈം ക്രോസ് z എനിക്ക് x y തലം ഒരു ഘടകം നൽകാൻ പോകുന്നു അത് 0 ലേക്ക് സമന്വയിപ്പിക്കണം കാരണം ഇടത് വശത്ത് അവസാന ബി അത് z ദിശയിലാണ് അതിനാൽ അവസാന പദം ഇത് അവിഭാജ്യ ഘടകത്തിന് കാരണമാകില്ല Z പ്രൈമിനൊപ്പം ഞാൻ ഈ ഇന്റഗ്രൽ എഴുതുകയാണെങ്കിൽ ഉത്തരം 0 ആയിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇടതുവശത്ത് x y തലം ഒരു ഘടകവുമില്ല അതിനാൽ എനിക്ക് B ഉണ്ട് അത് mu 0 ആണ് 0kz 0k4π ∞dz02πRdϕϕ×rs Rsz2R2r2 2rRcosϕ 32 z ദിശയിൽ mu 0 k എഴുതാം mu 0 k ഓവർ 4 pi ഇന്റഗ്രൽ dz പ്രൈം മൈനസ് അനന്തത മുതൽ അനന്തത വരെ ഇന്റഗ്രൽ R d phi പ്രൈം 0 മുതൽ 2 pi തവണ വരെ phi പ്രൈം ക്രോസ് r s മൈനസ് R s പ്രൈം z പ്രൈം സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2 R r കോസൈൻ ഫൈ മൈനസ് ഫൈ പ്രൈം റൈസ് ടു 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു ഫൈ പ്രൈം ക്രോസ് എസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് ഈ x y തലം നോക്കാം ഇത് പ്രൈം ആണെന്നും ഇത് ഫി പ്രൈം ആണെന്നും ഇത് എസ് ആണെന്നും പറയാം ഈ ആംഗിൾ ഫൈ പ്രൈം ആണ് എസ് എസ് പ്രൈം തമ്മിലുള്ള ഈ കോൺ ഫൈ മൈനസ് ഫൈ പ്രൈം ആണ് അതിനാൽ ഈ ഘട്ടത്തിൽ ഇത് s ആണ് ഇത് ഫൈ പ്രൈം ആണ് s ഉം s ഉം പ്രൈം യൂണിറ്റ് വെക്ടറും തമ്മിലുള്ള കോണും ഫൈ മൈനസ് ഫൈ പ്രൈം ആണ് അതിനാൽ ഫൈ പ്രൈം യൂണിറ്റ് വെക്ടറും ഫൈ യൂണിറ്റ് വെക്ടറും തമ്മിലുള്ള കോണും ഇവിടെയുണ്ട് മറ്റൊരു നിറത്തിൽ ഇത് കാണിക്കാൻ അനുവദിക്കുക ഫൈi മൈനസ് ഫൈ പ്രൈം അതിനാൽ ഈ ആംഗിൾ pi ബൈ 2 മൈനസ് ഫൈ മൈനസ് ഫൈ പ്രൈം ഇപ്പോൾ യൂണിറ്റ് വെക്റ്റർ ഫൈ പ്രൈം ക്രോസ് s z ദിശയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ മൈനസ് z ദിശ മൈനസ് z ദിശ സൈൻ pi ബൈ 2 മൈനസ് ഫൈ പ്രൈം അതിനാൽ അത് കോസൈൻ ഫൈ മൈനസ് ഫൈ പ്രൈം ആകാൻ പോകുന്നു ഫൈ പ്രൈം ക്രോസ് എസ് പ്രൈം ഫൈ പ്രൈം ക്രോസ് എസ് പ്രൈമിന് തുല്യമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫൈ പ്രൈം ക്രോസ് എസ് പ്രൈം മൈനസ് z ആണ് അതിനാൽ വലതുവശത്ത് mu 0 k ഓവർ 4 pi ഇന്റഗ്രൽ മൈനസ് അനന്തത മുതൽ അനന്തത വരെ d z പ്രൈം 0 മുതൽ 2 pi R d ഫൈ പ്രൈം വരെ അകത്ത് എനിക്ക് z ദിശയിൽ R മൈനസ് കോസൈൻ ഫൈ മൈനസ് ഫൈ പ്രൈം ലഭിക്കുന്നു s zcos ϕ s z 0k 0k4π ∞dz02πRdR rcosϕ z2R2r2 2rRcosϕ 32 4πR rR 0 rR അതിനാൽ എനിക്ക് ഇപ്പോൾ z യൂണിറ്റ് വെക്റ്റർ നീക്കംചെയ്യാനും ഇടത് വശത്ത് mu നോട്ട് k എഴുതുക ഇത് z പ്രൈം സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2 R r കൊസൈൻ ഫൈ മൈനസ് ഫൈ പ്രൈം റൈസ് ടു 3 ബൈ 2 ആക്കാനും കഴിയും ബാക്കി കാര്യങ്ങൾ ലളിതമാണ് എനിക്ക് രണ്ട് വശത്തും mu നോട്ട് k റദ്ദാക്കാൻ കഴിയും ഇത് r Rനെക്കാൾ താഴെയാണ് r R നെക്കാൾ വലുത് ആണെങ്കിൽ ഒരു ഫീൽഡും ഇല്ല അതിനാൽ ഇത് 0 ആയിരിക്കണം അതിനാൽ എനിക്കുള്ള ഉത്തരം ഇന്റഗ്രൽ മൈനസ് അനന്തത മുതൽ അനന്തത വരെ dz പ്രൈം ഇന്റഗ്രൽ ഡി ഫൈ പ്രൈം 0 മുതൽ 2 പൈ വരെ ഞാൻ എഴുതിയതെല്ലാം 4 pi ഓവർ R r R നെക്കാൾ കുറവായിരിക്കും r R നെക്കാൾ വലുതാണെങ്കിൽ പൂജ്യം അതാണ് ഉത്തരം അടുത്ത ചോദ്യo നമ്പർ 8 അതിനുള്ള ഒരു ഡിസ്ക് അതിന്റെ കേന്ദ്രം ഉത്ഭവത്തിലാണ് അതിനാൽ ഇതാണ് z അക്ഷം ഏകീകൃത ഉപരിതല ചാർജ് സാന്ദ്രത സിഗ്മ വഹിക്കുകയും കോണീയ വേഗത ഒമേഗ ഉപയോഗിച്ച് കറങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ ഉയരം h z അക്ഷത്തിലെ കാന്തികക്ഷേത്രം ആകാൻ പോകുന്നു എനിക്ക് ഈ പ്രശ്നം ചെയ്യാൻ കഴിയുന്നത് ഈ ഡിസ്ക് വീതി ഡെൽറ്റ r യുടെ ചെറിയ വളയങ്ങളായി വിഭജിക്കുക ഓരോ വളയത്തിനും കാരണം കാന്തികക്ഷേത്രം ഡെൽറ്റ ബി കണക്കാക്കി അതിനെ ചേർക്കുക അതിനാൽ z ഉയരത്തിൽ ഈ വളയo കാരണം ഞാൻ ഫീൽഡ് കണക്കാക്കും ഇപ്പോൾ എനിക്കറിയാം എനിക്ക് കറന്റ് I ഉപയോഗിച്ച് ആരം r ന്റെ ഒരു വളയo ഉണ്ടെങ്കിൽ z ഉയരത്തിൽ ഇത് കാരണം കാന്തികക്ഷേത്രം മറ്റൊന്നുമല്ല mu 0 I ഓവർ 2 rസ്ക്വാർ ഓവർ r സ്ക്വാർ പ്ലസ് z സ്ക്വാർ റൈസ് ടു 3 ബൈ 2 അത് z ദിശയിലാണ് കറന്റ് സാഹചര്യത്തിൽ ഈ കിരണം കാരണം ഇത് ഞാൻ I യുമായി പൊരുത്തപ്പെടാൻ പോകുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ അത് ചെയ്യാം Bz 0I2 r2r2z232 അതിനാൽ ഞാൻ ഈ ഡിസ്കിലേക്ക് നോക്കുകയാണെങ്കിൽ കട്ടിയുള്ള ഡെൽറ്റ ആർ ആരം r ന്റെ ഒരു വളയo എടുക്കുക അപ്പോൾ കറന്റ് I ഒരു യൂണിറ്റ് സമയത്തിന് ചാർജ് കടന്നുപോകുന്നു കട്ടിയുള്ള വീതിയുള്ള ഈ റിംഗിലെ ചാർജ് ഏരിയ 2 പൈ ആർ ഡെൽറ്റ ആർ ടൈംസ് സിഗ്മയും സെക്കൻഡിൽ ഈ ആവൃത്തി ഒമേഗയെ 2 പൈ തവണയിൽ ഫ്രീക്വൻസി കടന്നുപോകുന്നു അതിനാൽ ഇത് സിഗ്മ ആർ ഡെൽറ്റ r ന് തുല്യമാണ് ഈ റിംഗിലെ കറന്റ് ഇതാണ് അതിനാൽ ഇത് മൂലം ചെറിയ ഡെൽറ്റ B mu 0 ഓവർ 2 സിഗ്മ ആർ ഡെൽറ്റ r തവണ r സ്ക്വയർ ഓവർ സ്ക്വയർ പ്ലസ് z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 r2r2z232 Bzz0σω20Rr3drr2z232 അതിനാൽ z ഉയരത്തിൽ z ദിശയിലുള്ള ആകെ B mu 0 ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഒമേഗയുണ്ട് ഒരു ഒമേഗ mu 0 സിഗ്മ ഒമേഗയെ 2 ഇന്റഗ്രൽ 0 മുതൽ R r ക്യൂബ്ഡ് dr ഓവർ r സ്ക്വയർ പ്ലസ് z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു ഈ അവിഭാജ്യ കണക്കുകൂട്ടൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് പല വഴികൾ കണക്കാക്കാം പക്ഷേ എനിക്ക് r എഴുതാൻ കഴിയുമെന്ന് നോക്കാം തീറ്റയുടെ z ടാൻജെന്റിന് തുല്യമാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം തുടർന്ന് dr z സിക്കന്റ് സ്ക്വയർ തീറ്റയായി മാറുന്നു rztanθdrzsec2θdθ B0σω2 0Rz z3θ zθdθ z3 0σωz2 0Rz dθ 0σωz2 0Rz dcosθ 0σωz2 1ZR2z21 x2x2dx xcosθ അപ്പോൾ എനിക്ക് B തുല്യമാണ് mu 0 സിഗ്മ ഒമേഗ ഓവർ 2 ഇന്റഗ്രൽ തീറ്റയ്ക്ക് 0 മുതൽ ടാൻ ഇൻവെർസ് R ഓവർ z r ക്യൂബ്ഡ് z ക്യൂബ്ഡ് ടാൻ ക്യൂബ്ഡ് തീറ്റയായി മാറും ഇത് z സിക്കന്റ് സ്ക്വയർ തീറ്റ ഡി തീറ്റയാണ് z ക്യൂബ്ഡ് സിക്കന്റ് ക്യൂബ്ഡ് തീറ്റ കൊണ്ട് ഹരിച്ചാൽ Z ക്യൂബ് റദ്ദാക്കുന്നു സിക്കന്റ് സ്ക്വയർ തീറ്റ റദ്ദാക്കുന്നത് എനിക്ക് സിക്കന്റ് തീറ്റ നൽകുന്നു അതിനാൽ ഇത് 2 0 ന് മുകളിലുള്ള mu 0 സിഗ്മ ഒമേഗ ഓവർ 2 മുതൽ ടാൻ ഇൻവെർസ് R ഓവർ z ക്യൂബ്ഡ് സൈൻ തീറ്റ ഓവർ സ്ക്വയർ കൊസൈൻ തീറ്റ ഡി തീറ്റയായി മാറുന്നു ഇത് കണക്കാക്കാൻ എളുപ്പമുള്ള ഇന്റഗ്രൽ എനിക്ക് ഇത് mu 0 സിഗ്മ ഒമേഗ ഓവർ 2 ഇന്റഗ്രൽ 0 മുതൽ ടാൻ ഇൻവെർസ് R ഓവർ z സൈൻ സ്ക്വയർ തീറ്റ ഓവർ കോസൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ എന്നിവയ്ക്ക് തുല്യമായി എഴുതാം ഇത് മൈനസ് ചിഹ്നമുള്ള കോസൈൻ തീറ്റയുടെ d എന്ന് ഞാൻ എഴുതാം ഇപ്പോൾ നമ്മൾ കോസൈൻ സ്ക്വയർ തീറ്റയെ എക്സ് സ്ക്വയറായി കണക്കാക്കുന്നു അതിനാൽ ഇത് മൈനസ് മ്യു 0 സിഗ്മ ഒമേഗ ഓവർ 2 ആയി മാറുന്നു തീറ്റയ്ക്ക് തുല്യമായി 0 കോസൈൻ തീറ്റ 1 ആണ് തീറ്റ ടാൻ ഇൻവെർസ് R ബൈ z കോസൈൻ തീറ്റ z ഓവർ സ്ക്വാർ റൂട്ട് r സ്ക്വയർ പ്ലസ് z സ്ക്വയർ ന് തുല്യമാണ് എനിക്ക് 1 മൈനസ് x സ്ക്വയർ ഓവർ x സ്ക്വയർ dx ഉണ്ട് ഇവിടെ x കോസൈൻ തീറ്റ ആണ് 0σωz2 ZR2z21d1x2 1 0σωz2 1 R2z2z 1zR2z2 0σωz2 R22z2zR2z2 2z അതിനാൽ ഇത് mu 0 സിഗ്മ ഒമേഗ ബൈ 2 z ഓവർ R സ്ക്വയർ പ്ലസ് z സ്ക്വയർ 1 dx ഓവർ x സ്ക്വയർ മൈനസ് 1 എന്നിങ്ങനെ തുല്യമാണ് ഞാൻ മൈനസ് ചിഹ്നം മാറ്റി പരിധികൾ മാറ്റി അതിനാൽ mu 0 സിഗ്മ ഒമേഗ ബൈ 2 അകത്ത് എനിക്ക് മൈനസ് 1 ഓവർ x പോകുന്നു z വരെ സ്ക്വാർ റൂട്ട് R സ്ക്വയർ പ്ലസ് z സ്ക്വയർ 1 മൈനസ് x z സ്ക്വാർ റൂട്ട് R സ്ക്വയർ പ്ലസ് z സ്ക്വയർ 1 ഇത് എനിക്ക് mu 0 സിഗ്മ ഒമേഗയെ ബൈ 2 മൈനസ് 1 നൽകുന്നു മൈനസ് പ്ലസ് ആർ സ്ക്വാർ റൂട്ട് R സ്ക്വാർ പ്ലസ് z സ്ക്വയർ ഓവർ z മൈനസ് 1 മൈനസ് മൈനസ് പ്ലസ് z ഓവർ സ്ക്വയർ റൂട്ട് R സ്ക്വയർ പ്ലസ് z സ്ക്വയർ അതിനാൽ ഉത്തരം mu 0 സിഗ്മ ഒമേഗ ബൈ 2 R സ്ക്വയർ പ്ലസ് 2 z സ്ക്വയർ റൂട്ട് z ആർ സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് 2 ആയി മാറുന്നു കൂടാതെ ഒരു z പുറത്തും ഉണ്ട് ഇവിടെ ഒരു z ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഈ z ഇവിടെ അവശേഷിക്കുന്നു ഈ z ഇവിടെ തുടരുന്നു ഈ z ഇവിടെ തുടരുന്നു z ഇവിടെ അവശേഷിക്കുന്നു ഈ z ഇവിടെ തുടരുന്നു ഈ z ഇവിടെ വരുന്നു ഇതാണ് നിങ്ങളുടെ ഉത്തരം അതിനാൽ ഈ z പിന്നീട് റദ്ദാക്കുന്നു ഇത് ഉപയോഗിച്ച് എനിക്ക് ഇത് റദ്ദാക്കാൻ കഴിയും ഇത് 2 z ആണ് അതാണ് എന്റെ ഉത്തരം അടുത്തതായി പ്രശ്നo നമ്പർ 9 L നീളമുള്ള നേർത്ത സോളിനോയിഡ് പരിഗണിക്കുക a ദൂരവും ഉണ്ട് L എന്നത് a യെക്കാൾ വളരെ വലുതാണ് അതിനാൽ ഞാൻ അതിനെ ടോർറോയ്ഡ് റിംഗ് ആകൃതിയിലേക്ക് മാറ്റുമ്പോൾ ഈ ദൂരം R നെക്കാൾ വളരെ വലുതാണ് ഇത് ഒരു വളയത്തിലേക്ക് കയറുന്നു അങ്ങനെ അത് ഒരു ടോർറോയ്ഡ് ആയി മാറുന്നു അത് ഉത്ഭവസ്ഥാനത്ത് കേന്ദ്രത്തിൽ സൂക്ഷിക്കുന്നു അതിനാൽ ഇതാണ് ഉത്ഭവം അത് അച്ചുതണ്ട് z അക്ഷമാണ് അതിനാൽ z അക്ഷം സ്ക്രീനിൽ നിന്ന് പുറത്തുവരുകയും അതിലെ കാന്തികക്ഷേത്രം phi ദിശയിലുമാണ് അതിനാൽ ഇതിന് phi ദിശയിലേക്ക് പോകുന്ന ഒരു കാന്തികക്ഷേത്രം ഉണ്ട് സോളിനോയിഡ് ഒരു കറന്റ് I വഹിക്കുന്നു അതിനാൽ ഇത് ഒരു കറന്റ് I വഹിക്കുകയും N ടേണുകൾ ഉണ്ട് അതിനാൽ ഇത് ഒരു കറന്റ് I വഹിക്കുകയും N ടേണുകൾ നടത്തുകയും ചെയ്യുന്നു അതിനാൽ ഒരു യൂണിറ്റ് നീളത്തിൽ ടേണുകളുടെ എണ്ണം L ഓവർ N ആണ് സമവാക്യങ്ങളുടെ സമാനത കണക്കിലെടുക്കുമ്പോൾ B യുടെ ടേണുകളുടെ സമവാക്യങ്ങളുടെ സമാനത കണക്കിലെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു mu നോട്ട് j ന് തുല്യമാണ് A യുടെ ടേണുകൾ B ന് തുല്യമാണ് z ടോർറോയ്ഡ് നുള്ള വെക്റ്റർ പോട്ടെൻഷ്യൽ z ഉയരത്തിൽ z അക്ഷത്തിൽ കണ്ടെത്തുക B0J A B അതിനാൽ ഈ ബി ഫീൽഡ് ഉപയോഗിച്ച് phi ദിശയിൽ ഞാൻ ഈ ടോർറോയ്ഡ് മാപ്പ് ചെയ്യാൻ പോകുന്നുവെന്ന് നമുക്ക് നോക്കാം വൈദ്യുത ദിശയിലേക്കും അനുബന്ധ ബിയിലേക്കും കറന്റ് ഉള്ള ഒരു വളയത്തിന് സമാനമാക്കുക കാരണം അന്തർലീനമായ സമവാക്യങ്ങൾ ഒന്നുതന്നെയാണ് ബി യുടെ സമവാക്യം എ യുടെ സമവാക്യത്തിന് mu നോട്ട് J ന് തുല്യമായിരിക്കും സമാന വേഷങ്ങൾ ചെയ്യുന്നു അതിനാൽ എനിക്ക് കറന്റ് I വഹിക്കുന്ന ഒരു വളയo ഉണ്ടോ എന്ന് ഇപ്പോൾ നോക്കാം ഇപ്പോൾ ഞാൻ B യ്ക്കായി പരിഹരിച്ചാൽ ഡെൽ ക്രോസ് B mu നോട്ട് J ന് തുല്യമാണ് അപ്പോൾ z അക്ഷത്തിൽ B z ദിശയിലായിരിക്കും അത് നമുക്ക് നൽകപ്പെടും ഇതിനകം തന്നെ ഇത് കണ്ടു mu ഞാൻ 2 ആരം R സ്ക്വയർ R R സ്ക്വയർ പ്ലസ് z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു I എന്താണ് I മറ്റൊന്നുമല്ല J dot d a ഇപ്പോൾ സമാനമായ സാഹചര്യം നോക്കാം കാരണം ഈ ബി ഫീൽഡ് ചുറ്റിക്കറങ്ങുന്ന ഈ ടോർറോയ്ഡ് എനിക്ക് ഡെൽ ക്രോസ് എ തുല്യം ബി ഉണ്ട് B0J Bz 0I2 R2R2z232 A B B daϕ Az 2 R2R2z232 ϕπa2Bπa2NLI Azz a2NIL L2π2L2π2z232 അതിനാൽ A z ദിശയിലായിരിക്കണം എന്ന് എനിക്ക് എഴുതാൻ കഴിയും അതിനാൽ z അക്ഷത്തിൽ പ്രവർത്തനം mu 0 I ആയിരിക്കണം എന്നെ ഇപ്പോൾ B dot d a ഉപയോഗിച്ച് മാറ്റും അത് ഫ്ലക്സ് ആണ് അതിനാൽ റിംഗിലൂടെയുള്ള ഫ്ലക്സ് 2 മടങ്ങ് R സ്ക്വാർ ഓവർ R സ്ക്വാർ പ്ലസ് z സ്ക്വയറും ആയി വിഭജിക്കുന്നു എന്താണ് ഫ്ലക്സ് ഇപ്പോൾ എല്ലാ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ ഫ്ലക്സ് മറ്റൊന്നുമല്ല പൈ a സ്ക്വാർ അത് ബി ഫീൽഡിലെ സോളിനോയിഡ് ക്രോസ് സെക്ഷനാണ് അത് പൈ ഒരു സ്ക്വയർ ബി അല്ലാതെ മറ്റൊന്നുമല്ല N ഓവർ L തവണ I അതിനാൽ ഇത് പൈ a സ്ക്വയർ N I ഓവർ L ആയി മാറുന്നു R സ്ക്വയർ L ഓവർ 2 pi സ്ക്വയർ L ഓവർ 2 pi സ്ക്വയർ പ്ലസ് z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 കൊണ്ട് ഹരിക്കുന്നു ബാക്കി എല്ലാം ബീജഗണിതമായും നിങ്ങളുടെ ഉത്തരം കണക്കാക്കാനും കഴിയും ഞാൻ ഇവിടെ ചേർക്കേണ്ടതാണ് അസൈൻമെന്റിൽ നമ്മൾ നൽകിയ ഉത്തരങ്ങൾക്ക് പൈ സ്ക്വയറിന്റെയോ മറ്റോ ഒരു ഘടകം കാണുന്നില്ലെന്ന് ഞാൻ കരുതുന്നു ദയവായി അത് പരിശോധിക്കുക അതിനാൽ നമുക്ക് ഇത് പ്രവർത്തിപ്പിച്ച് അത് എന്തായിരിക്കുമെന്ന് നോക്കാം ഇത് പൈ a സ്ക്വയർ N I L സ്ക്വയർ ഓവർ 4 പൈ സ്ക്വയർ L തവണ L സ്ക്വയർ 4 പൈ സ്ക്വയർ z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 തവണ 8 pi ക്യൂബ് ആണ് Azza2NIL2×8342L L242z232 2a2NILL242z232 കൂടാതെ 2 ന്റെ ഒരു ഘടകമുണ്ട് ഇവിടെ 2 ന്റെ ഒരു ഘടകമുണ്ട് അതിനാൽ ഈ 8 പൈ സ്ക്വയർ റദ്ദാക്കുന്നു എനിക്ക് ഒരു പൈ സ്ക്വയർ ലഭിക്കുന്നു ഈ എൽ ഉപയോഗിച്ച് റദ്ദാക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന അവസാന ഉത്തരം പൈ സ്ക്വയർ a സ്ക്വയർ N I L ഓവർ L സ്ക്വയർ പ്ലസ് 4 പൈ സ്ക്വയർ z സ്ക്വയർ റൈസ് ടു 3 ബൈ 2 ആണ് അതിനാൽ അസൈൻമെൻറിൽ നമ്മൾ നൽകിയ ഉത്തരങ്ങളിൽ പൈ സ്ക്വയറിന്റെ ഒരു ഘടകം എനിക്ക് നഷ്ടമായി അവസാനമായി ഒമേഗയോടൊപ്പം കറങ്ങുകയും ചാർജ് സിഗ്മ വഹിക്കുകയും ചെയ്യുന്ന ഈ ഡിസ്കിന്റെ z അക്ഷത്തിൽ കാന്തിക വെക്റ്റർ പോട്ടെൻഷ്യൽ ഉണ്ടെന്ന് പറയുന്ന അവസാന പ്രശ്നം ഇതായിരിക്കും ഡെൽ സ്ക്വയർ എ എന്ന സമവാക്യം ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിൽ മൈനസ് mu നോട്ട് ജെ കേസ് ജെ എന്നത് ഉപരിതല കറന്റ് കെ മാത്രമായിരിക്കുമെന്ന് നമ്മൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് സിഗ്മ 2 പൈ ആർ ഡെൽറ്റ ആർ ഇത് ഈ വളയം വഹിക്കുന്ന വൈദ്യുതധാരയാണ് കേന്ദ്രത്തിൽ നിന്ന് അകലെ r അകലെ ഡെൽറ്റ r തവണ ഒമേഗ ഓവർ 2 pi എന്നത് J ആകാൻ പോകുന്നത് അല്ലെങ്കിൽ phi ദിശയിലുള്ള k ആണ് 2A 0JJ K σ2πr rr 2π σrω 2Ax 0Jx 2Ay 0Jy Az0 അതിനാൽ ഇത് ഈ 2 പൈ റദ്ദാക്കുന്നു ഡെൽറ്റ ആർ റദ്ദാക്കുന്നു നിങ്ങൾക്ക് സിഗ്മ ആർ ഒമേഗയെ ഫൈ ദിശയിൽ ലഭിക്കും ഇപ്പോൾ പോയിസണിന്റെ സമവാക്യം ഡെൽ സ്ക്വയർ എ മൈനസ് mu നോട്ട് ജെ ക്ക് തുല്യമാണ് അതിനാൽ ഡെൽ സ്ക്വയർ എ എക്സ് മൈനസ് മ്യു നോട്ട് ജെ എക്സ് ഡെൽ സ്ക്വയർ എ വൈ മൈനസ് mu നോട്ട് ജെ വൈ എ ഉണ്ടായിരിക്കണം ഫൈയുടെ ദിശയിലായിരിക്കണം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ജെ ഫൈയുടെ ദിശയിലാണ് പക്ഷേ z അക്ഷത്തിൽ അദ്വിതീയമായി നിർവചിക്കപ്പെട്ട phi ഇല്ല അതിനാൽ z അക്ഷത്തിൽ A 0 ആകാൻ പോകുന്നു അതാണ് നിങ്ങളുടെ ഉത്തരം അതിനാൽ ഇത് അസൈൻമെന്റ് 4 പൂർത്തിയാക്കുന്നു